വൈദ്യുത പ്രവാഹങ്ങളുടെ പൊതുവായ സവിശേഷതകളായ ഈ കിർചോഫിന്റെ കറണ്ട് നിയമം പോലെ നിങ്ങൾക്ക് ഒരു ലൂപ്പിന് ചുറ്റുമുള്ള വോൾട്ടേജുകളുടെ പൊതുവായ ഗുണങ്ങളുണ്ട് അത് കിർചോഫിന്റെ വോൾട്ടേജ് നിയമമാണ് നൽകുന്നത് അത് എന്താണ് പറയുന്നത് നമുക്ക് ഘടകങ്ങളുടെ ഒരു ലൂപ്പ് എടുക്കാം ഓരോ ഘടകത്തിനും ഒരു നിശ്ചിത വോൾട്ടേജ് ഉണ്ട് V 1 V 2 V 3 V 4 എന്ന് വിളിക്കട്ടെ അതിനാൽ നിങ്ങൾ പ്രത്യേക നോഡിൽ നിന്ന് ആരംഭിക്കുക ഒപ്പം ലൂപ്പിന് ചുറ്റുമുള്ള പാതയിലൂടെ സഞ്ചരിക്കുക മൊത്തം വോൾട്ടേജ് വർദ്ധനവ് അല്ലെങ്കിൽ വോൾട്ടേജ് വീഴ്ച എന്നിവ നിങ്ങൾ നോക്കും അവയിലേതെങ്കിലും ഒന്ന് നോക്കിയാൽ ഇത് നോഡിലേക്ക് പ്രവേശിക്കുന്ന വൈദ്യുതധാരകളോ നോഡിൽ നിന്ന് പുറപ്പെടുന്ന വൈദ്യുത പ്രവാഹങ്ങളോ നോക്കുന്നതിന് സമാനമാണ് അതിനാൽ നിങ്ങൾ ഈ പാതയിലൂടെ പോകുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് നോക്കുമെന്ന് പറയട്ടെ അതിനാൽ നിങ്ങൾ ഈ നോഡിൽ n1 ൽ നിന്ന് നോഡ് n2 ലേക്ക് പോകുമ്പോൾ വോൾട്ടേജ് V2 കുറയുന്നു കാരണം n1 n2 നേക്കാൾ വി 2 വോൾടേജ് നു മുകളിൽ ആണ് അതിനർത്ഥം നിങ്ങൾ n1 ൽ നിന്ന് n2 വരെ പോകുമ്പോൾ വോൾട്ടേജ് V2 ആയി കുറയുന്നു അതുപോലെ തന്നെ നിങ്ങൾ n2 ൽ നിന്ന് n3 ലേക്ക് പോകുമ്പോൾ മറ്റൊരു V3 വോൾട്ടേജും n3 ൽ നിന്ന് n4 ലേക്ക് പോകുമ്പോൾ മറ്റൊരു വോൾട്ടേജ് V4 ഉം ആയി കുറയുന്നു ഒടുവിൽ നിങ്ങൾ n4 ൽ നിന്ന് n1 ലേക്ക് പോകുമ്പോൾ വോൾട്ടേജ് മൈനസ് V1 കുറയുന്നു അതിനാൽ n1 n4 ന് മുകളിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നിങ്ങൾ n4 ൽ നിന്ന് n1 ലേക്ക് പോകുമ്പോൾ വോൾട്ടേജ് V1 വർദ്ധിക്കുന്നു ഇത് മൈനസ് V1 ന്റെ വോൾട്ടേജ് വീഴ്ച എന്ന് പറയുന്നതിനു തുല്യമാണ് n1 n 4 ന് V1 വോൾടേജ് നു മുകളിൽ അല്ലെങ്കിൽ n4 ന് താഴെയായി n1 മൈനസ് V1 വോൾടേജ് എന്ന് പറയാം അതിനാൽ നിയമങ്ങൾ ശരിയായി പ്രയോഗിക്കുന്നതിന് ഈ കൺവെൻഷനുകൾ സൌകര്യപ്രദമായിരിക്കേണ്ടത് ഉണ്ട് അതിനാൽ കിർചോഫിന്റെ വോൾട്ടേജ് നിയമം പറയുന്നത് ഇത് 0 ന് തുല്യമാണ് എന്നാണ് അതായത് നിങ്ങൾ ലൂപ്പിനുചുറ്റും പോയി എല്ലാ വോൾട്ടേജുകളും സ്ഥിരമായ ദിശയിൽ കൂട്ടുകയും അതായത് നിങ്ങൾ വോൾടേജ് കൂടുകയോ കുറയുകയോ ചെയുന്നു എന്ന് എടുത്താലും അതിന്റെ മൂല്യം പൂജ്യം ആയിരിക്കും തീർച്ചയായും നിങ്ങൾ ഒരു നോഡിൽ നിന്ന് ആരംഭിച്ച് അതേ നോഡിലേക്ക് മടങ്ങിവരും അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു തവണ ലൂപ്പ് കണ്ടെത്താനാകുക മാത്രമല്ല നിങ്ങൾക്ക് വോൾടേജ് ഇന്റെ ഉയർച്ചയോ താഴ്ചയോ എടുക്കാൻ സാധിക്കും എന്നാൽ നിങ്ങൾ എടുക്കുന്നതെന്തും സ്ഥിരമായി ചെയ്യുക ഇത് നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ ശരിയാകും ഇതാണ് കിർചോഫിന്റെ വോൾട്ടേജ് നിയമം ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്തുകൊണ്ട് ഇത് ഉപയോഗപ്രദമാണ് അതിനാൽ ഞാൻ വീണ്ടും അതേ സർക്യൂട്ട് എടുക്കാം വി 1 1 വോൾട്ട് വി 2 3 വോൾട്ട് വി3 അജ്ഞാതം വി4 4 വോൾട്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഇത് 0 ന് തുല്യമാണ് അതിനർത്ഥം 3 വോൾട്ട് പ്ലസ് വി3 പ്ലസ് 5 വോൾട്ട് ഇത് വി 4 മൈനസ് 1 വോൾട്ട് ഇത് വി 1 അതായത് 0 ന് തുല്യമാണ് അതായത് ഇത് വി3 മൈനസ് 7 വോൾട്ട് ആണെന്ന് പറയാം അതിൽ നിന്നും നിങ്ങൾക്ക് അജ്ഞാത വോൾട്ടേജ് കണക്കാക്കാം ഇപ്പോൾ കിർചോഫിന്റെ വോൾട്ടേജ് നിയമം ശരിയാണ് ഒരു ടൈം വേരിയിങ് മാഗ്നെറ്റിക് ഫീൽഡ് ലൂപ്പ് മുറിക്കുന്നില്ല എന്ന് അനുമാനിക്കുന്നു ഒരു ടൈം വേരിയിങ് മാഗ്നെറ്റിക് ഫീൽഡ് ലൂപ്പ് മുറിച്ചാൽ അത് ലൂപ്പിൽ ഒരു വോൾട്ടേജ് ഉണ്ടാക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ലൂപ്പിന് ചുറ്റും പോകുമ്പോൾ വോൾട്ടേജുകളുടെ ആകെത്തുക പൂജ്യമല്ല ഇപ്പോൾ നമ്മൾ അത്തരം കേസുകൾ ഒഴിവാക്കുന്നു ചില അളവുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ സർക്യൂട്ടുകൾ വളരെ ചെറുതാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഉപയോഗപ്രദമായ കാര്യങ്ങളാണ് ഇത് ഒരു വലിയ എണ്ണം സർക്യൂട്ടുകൾക്ക് ശരിയാണ് ഇത് ഇടുങ്ങിയ ഉപയോഗശൂന്യമായ സന്ദർഭങ്ങളിൽ മാത്രം ബാധകമല്ല ഇത് യഥാർത്ഥത്തിൽ ധാരാളം ഉപയോഗപ്രദമായ സന്ദർഭത്തിലും ബാധകമാണ് അതിനാലാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് ദൈനംദിന അനുഭവത്തെ അടിസ്ഥാനമാക്കി കിർചോഫിന്റെ വോൾട്ടേജ് നിയമത്തിനായി നിങ്ങൾക് ഒരു സാമ്യത ഉണ്ടാക്കാം അതായത് നിങ്ങൾ ഒരു നിശ്ചിത പോയിന്റിൽ നിന്ന് ആരംഭിച്ച് നിങ്ങൾ കെട്ടിടത്തിന് മുകളിലേക്ക് പോകുമെന്ന് പറയട്ടെ നിങ്ങൾ ഒരു നിശ്ചിത ഉയരം നേടുന്നു h2 മൈനസ് എച്ച്1 നിങ്ങൾ താഴേക്കിറങ്ങാം ഒരു ഹ്രസ്വ കെട്ടിടത്തിലേക്ക് നിങ്ങൾക്ക് h3 മൈനസ് h2 ന്റെ ഉയരം ലഭിക്കും h3 മൈനസ് h2 യഥാർത്ഥത്തിൽ ഒരു നെഗറ്റീവ് ആണ് എന്നിട്ട് നിങ്ങൾ ചില ഭൂഗർഭ സ്ഥലത്തേക്ക് ഇറങ്ങും അതിനാൽ നിങ്ങൾക്ക് h4 മൈനസ് എച്ച്3 ഉണ്ടായിരിക്കും ഒടുവിൽ നിങ്ങൾ ആരംഭിച്ച സ്ഥലത്തേക്ക് നിങ്ങൾ മടങ്ങിയെത്തിയാൽ എച്ച് 1 മൈനസ് എച്ച് 4 ഉയരം ലഭിക്കും അതിനാൽ വ്യക്തമായും ഈ നേട്ടങ്ങളെ അടിസ്ഥാനപരമായി പൊട്ടൻഷ്യൽ ഗൈൻ ആയി കണക്കാക്കിയാൽ ഇത് g കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് 1 മുതൽ 2 2 മുതൽ 3 3 മുതൽ 4 4 മുതൽ 1 വരെ പൊട്ടൻഷ്യൽ ഗൈൻ ലഭിക്കും ഇവയെല്ലാം സംഗ്രഹിച്ചാൽ വ്യക്തമായും നിങ്ങൾ പൂജ്യത്തിൽ അവസാനിക്കും കിർചോഫിന്റെ വോൾട്ടേജ് നിയമം ഇതിന് നേരിട്ട് സമാനമാണ് ഏത് ഭാഗത്തും ഉണ്ടാകുന്ന യഥാർത്ഥ പൊട്ടൻഷ്യൽ 1 മുതൽ 2 വരെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം ഇത് ഒരു അടയാളമാണ് 2 മുതൽ 3 വരെ ഇത് ഒരു വിപരീത ചിഹ്നമാണ് എന്നാൽ സ്ഥിരമായ രീതിയിൽ എടുത്ത എല്ലാ വസ്തുക്കളുടെയും ആകെത്തുക 0 ആണ് ഇവിടെ ഞാൻ നേടിയ ഉയരം എടുത്തു അതിനാൽ ഇത് പോസിറ്റീവ് ആണെന്നും അത് നെഗറ്റീവ് ആണെന്നും അർത്ഥമാക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ഇത് വിപരീത പൊളാരിറ്റി ആയി എടുക്കാം മാത്രമല്ല നിങ്ങൾ അതേ ഫലത്തിൽ അവസാനിക്കുകയും ചെയ്യും